മെക്കാനോബയോളജിയിലെ സാങ്കേതികതകൾ എ എംഅറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ഹലോ പ്രവർത്തന ജീവശാസ്ത്രത്തിൻ്റെ മെക്കാനോബയോളജിയുടെ ഇന്നത്തെ ആമുഖ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം അവസാന ക്ലാസ്സിൽ ഞാൻ ഹൈഡ്രോജെല്ലുകൾ എങ്ങനെ നിർമ്മിക്കുന്നു എന്നതിനെക്കുറിച്ച് ചർച്ചചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് ഹൈഡ്രോജെല്ലുകളുടെ കാഠിന്യത്തെ ട്യൂൺ ചെയ്യാൻ കഴിയും ഒപ്പം ഇവയുടെ കാഠിന്യം ത്രിഡിയിലെ ജെല്ലുകളുടെ സുഷിരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ കോശങ്ങൾക്കു വേണ്ടി മെക്കാനൊബയോളജിക്കു വേണ്ടി ഹൈഡ്രോജല്ലുകളുടെ ഗുണങ്ങളെ ശരിയായി നിർണ്ണയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കോശങ്ങൾ മെക്കാനോ അഡാപ്റ്റ് ചെയ്യുന്നതങ്ങനെയാണ് സ്റ്റിഫ്നെസ്സ് പോലെയുള്ള ഹൈഡ്രോജെല്ലിൻറെ ഗുണങ്ങൾ അളക്കുന്നതിനോ സെൽ മെക്കാനോ അഡാപ്റ്റേഷന്റെ ഗുണമായി കോശകാഠിന്യം അളക്കാനോ അല്ലെങ്കിൽ ജെല്ലിൻറെ ബൾക്ക് പ്രോപ്പർട്ടികളെ അളക്കാനോ അതായത് ജെല്ലുകളുടെയോ കോശങ്ങളുടെയോ കാഠിന്യത്തെ കണക്കാക്കുന്നതിനുള്ള ഒരു മാർഗം നാം കണ്ടെത്തേണ്ടതുണ്ട് ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം റിയോളജി ആണ് ഇതിനെക്കുറിച്ച് കൊളാജൻ ജെല്ലുകളുടെ ഗുണവിശേഷതകൾ എങ്ങനെ അളക്കാമെന്ന് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എന്നിരുന്നാലും പരീക്ഷണാത്മകമായി നിങ്ങൾ മുകളിലുള്ള രണ്ട് പ്ലേറ്റുകൾക്കും താഴെയുള്ള പ്ലേറ്റിനുമിടയിൽ ജെൽ പോളിമറൈസ് ചെയ്യുന്നതിനെ തടയുമ്പോൾ ജെൽ ഗ്ലാസ് കവർസ്ലിപ്പിൽ പ്രവർത്തനക്ഷമമാവില്ല ഇതാണ് നിങ്ങളുടെ ജെൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ റിയോളജിയിൽ അളക്കുന്ന സവിശേഷതകൾ ജെൽ ക്രോസ് ലിങ്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അളക്കാൻ കഴിയില്ല ജെല്ലുകൾ സാധാരണയായി ഉപരിതലവുമായി ക്രോസ് ലിങ്ക് ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങൾ അളക്കുന്ന സവിശേഷതകളിൽ വലിയ വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് ഇവയുടെ പ്രോപ്പർട്ടീസ് കണക്കാക്കാൻ വ്യത്യസ്തമായ ഒരു സമീപനം ഉപയോഗിക്കാം അവിടെയാണ് എ എം ഫലപ്രദമാകുന്നത് നമ്മൾ മുമ്പ് എ എം നെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എം ഒന്നിലധികം രീതികളിൽ ഉപയോഗിക്കാൻ കഴിയും ഇത് സാമ്പിളുകളുടെ ഇമേജിങ്ങിനാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എഎഫ്എം മ്മിൽ സാമ്പിൾ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനാൽ ജെല്ലുകൾ കോശങ്ങൾ അല്ലെങ്കിൽ കലകൾ gels cells or tissues പോലുള്ള നനവുള്ള സാമ്പിളുകളും കൈകാര്യം ചെയ്യാൻ കഴിയും മുമ്പ് ഞാൻ എ എം ന്റെ പ്രോട്ടീൻ അൺഫോൾഡിങ്ങിലുള്ള ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഫൈബ്രോനെക്റ്റിനെക്കുറിച്ചും അതിന്റെ വ്യത്യസ്ത ഡൊമെയ്നുകളുടെ മെക്കാനിക്കൽ സ്ഥിരതയെക്കുറിച്ചുമുള്ള ചർച്ചയിൽ ഞാൻ അവയെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു ഇന്ന് വീണ്ടും ഒരു എ എം എങ്ങനെയാണ് എന്ന് ചുരുക്കമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എമ്മിന് ഒരു അഗ്രം ഉണ്ട് ഇത് ഒരു കാന്റിലിവറിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഈ കാന്റിലിവർ ഒരു സ്പ്രിംഗ് പോലെ പ്രവർത്തിക്കുന്നു കൂടാതെ എക്സ് വൈ പീസോയിൽ വെച്ചിരിക്കുന്ന സാമ്പിൾ ഉണ്ട് ഈ മുഴുവൻ സജ്ജീകരണവും ഒരു ഇൻവെർട്ടഡ് മൈക്രോസ്കോപ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു ഒബ്ജെക്റ്റീവ് ചുവടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പിൾ കാണാൻ കഴിയും പ്രോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സാമ്പിൾ സ്ഥാപിക്കാം എന്നിട്ട് ആ പോയിൻറ് കൂർമ്മാഗ്രത്തിന് താഴെ വയ്ക്കുക കാന്റിലിവറിന്റെ പിൻഭാഗം തിളക്കമുള്ളതാണ് ഒരു ലേസർ ലൈറ്റ് കാന്റിലിവറിന്റെ പിന്നിൽ നിന്ന് പ്രതിഫലിക്കുകയും അത് ഫോട്ടോ ഡിറ്റക്ടറിൽ പതിയുകയും ചെയ്യുന്നു സാമ്പിൾ സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു എക്സ്വൈ പീസോ ഉണ്ട് ഈ പീസോ അഗ്രത്തിന് അനുയോജ്യമായി സാമ്പിൾ സ്ഥാപിക്കുന്നു അഗ്രജ്യാമിതിയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വിവിധ ജ്യാമിതികൾ ലഭിക്കും ഇവയിൽ നിന്ന് നീളം വീതി കനം ആകൃതി മെറ്റീരിയൽ നിങ്ങൾ നൽകുന്ന കോട്ടിംഗ് തരം സ്പ്രിംഗ് സ്ഥിരാങ്കം എന്നിവ കാണാം വ്യത്യസ്തമാകാവുന്ന നിരവധി സവിശേഷതകൾ ഇവയാണ് ടിപ്പ് പ്രത്യേകിച്ചും മൃദു സാമ്പിളുകളുടെ ടിപ്പ് നോക്കുകയാണെങ്കിൽ ടിപ്പിന്റെ വ്യാസം ഉയരം ആകൃതി സ്പ്രിംഗ് സ്ഥിരാങ്കം എന്നിവയ്ക്ക് പ്രാധാന്യമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതികൾ ഏതാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഇമേജിംഗ് കോൺടാക്റ്റ് മോഡ് ആണ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സാമ്പിളിൽ സ്പർശിച്ചുകൊണ്ട് കാന്റിലിവർ ഉണ്ട് കോൺടാക്റ്റ് മോഡിൽ കാന്റ ലിവറിൻറെ അഗ്രവും സാമ്പിളും എല്ലായ്പ്പോഴും സമ്പർക്കത്തിലാണ് കൂടാതെ ടിപ്പ് സാമ്പിളിൻറെ ഉപരിതലം സ്കാൻ ചെയ്യുന്നു നിങ്ങളുടെ സാമ്പിൾ ഇതാണെങ്കിൽ ടിപ്പ് എന്തുചെയ്യും ടിപ്പ് ഒരു ദിശയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകും കൂടാതെ അടുത്ത വരിയിലേക്ക് പോയി സ്കാൻ ചെയ്തു തിരികെ വരും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും വളരെ പരന്നതും കട്ടിയുള്ളതുമായ പ്രതലങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള കോൺടാക്റ്റ് മോഡിംഗ് തിരഞ്ഞെടുക്കുന്നത് ലാറ്ററലായും സ്കാൻ ചെയ്യുന്നതിനാൽ ഇത് പ്രധാന്യമുള്ളതാണ് ഇവിടെ സാമ്പിളിൽ ശക്തി പ്രയോഗിക്കുന്നുണ്ട് അതു കൊണ്ട് കോശം പോലെ അതിലോലമായ സാമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ കോശം തൽസ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാൻ ഈ ശക്തി മതിയാകും ഇതുകൊണ്ടാണ് കോശങ്ങൾക്ക് ഇസഡ് ഉയരത്തിൽ വ്യത്യാസമുണ്ടായത് പുറം ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കോശ ത്തിൻറെ ഉയരം പകുതി മൈക്രോൺ വരെ കുറവായിരിക്കാം മധ്യഭാഗത്ത് ഇത് 15 മുതൽ 30 മൈക്രോൺ വരെയാകാം അതിനാൽ ഇസഡ് ദിശയിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട് ഇങ്ങനെയുള്ള ഉപരിതലത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സ്കാനിങ്ങ് എങ്ങനെ ചെയ്യും യഥാർത്ഥത്തിൽ ഡിഫ്ലക്ഷൻ സെറ്റ് പോയിന്റാണ് നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ സാമ്പിളിൽ ചെലുത്തപ്പെടുന്ന ശക്തിയാണ് ഡിഫ്ലക്ഷൻ സെറ്റ് പോയിന്റ് ഇത് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ശക്തി പ്രയോഗിക്കേണ്ടതുണ്ട് കാരണം ചെറിയ ശക്തി പ്രയോഗിക്കുന്നില്ലെങ്കിൽ ഉപരിതലം വൈവിധ്യമാർന്നതുകൊണ്ട് സാമ്പിളിൽ നിന്ന് മാറിപ്പോകാം അതിനാൽ സ്കാനിങ്ങ് സമയത്ത് സാമ്പിളിൽ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് ഡിഫ്ലക്ഷൻ സെറ്റ് പോയിന്റ് അതുകൊണ്ട് മൃദുവായതോ വളരെ അയഞ്ഞതോ ആയ സാമ്പിളുകൾക്ക് ഇത്തരത്തിലുള്ള ഇമേജിംഗ് നല്ലതല്ല മൃദുവായതോ വളരെ അയഞ്ഞതോ ആയ സാമ്പിളുകൾക്ക് മറ്റൊരു രീതിയായ ടാപ്പിംഗ് മോഡ് ഉപയോഗിക്കാം ടാപ്പിംഗ് മോഡിൽ അഗ്രഭാഗവും സാമ്പിളും ഇടവിട്ടുള്ള സമ്പർക്കത്തിലാണ് ഈ സാങ്കേതികതയിൽ അഗ്രം അനുരണന ആവൃത്തിയിൽ ആന്ദോളനം ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ആവൃത്തിയിൽ അഗ്രം മുകളിലേക്കും താഴേക്കും നീക്കുക എന്നതാണ് ആംപ്ലിറ്റ്യൂഡ്സെറ്റ് പോയിന്റാണ് ഇവിടെ നിയന്ത്രിക്കണ്ടത് ആംപ്ലിറ്റ്യൂഡ് സെറ്റ് പോയിന്റ് എന്താണെന്ന് ഞാൻ വിശദീകരിക്കട്ടെ എന്റെ കൈ ടിപ്പാണെന്ന് സങ്കൽപ്പിക്കുക അത് താഴേക്കിറങ്ങി ഉപരിതലത്തിൽ സ്പർശിക്കുന്നു അതിനാൽ ഒരു നിശ്ചിത ആവൃത്തിയിൽ ടിപ്പ് ചലിക്കുമ്പോൾ ടിപ്പ് ഉപരിതലത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിൽ ഈ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്നില്ല പക്ഷേ നിങ്ങൾ ഉപരിതലത്തിനടുത്ത് പോയി തട്ടുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് തടസ്സപ്പെടും അതായത് ആംപ്ലിറ്റ്യൂഡ് കുറയും ആംപ്ലിറ്റ്യൂഡ് സെറ്റ് പോയിന്റ് സാമ്പിളിൽ നിന്ന് ഒരു നിശ്ചിത ഉയരത്തിൽ അഗ്രഭാഗം സ്ഥിതി ചെയ്യാൻ അനുവദിക്കുന്നു അതായത് ഓരോ തവണയും ടിപ്പ് ഉപരിതലത്തെ സ്പർശിക്കുമ്പോൾ ലാറ്ററൽ ഫോഴ്സ് പ്രയോഗിക്കാത്തതുകാരണം ഇത് സാമ്പിളിനെ വേർപെടുത്തുന്നില്ല അതിനാൽ മൃദുവായതോ അയഞ്ഞതോ ആയ സാമ്പിളുകൾക്ക് ഇത്തരത്തിലുള്ള ഇമേജിംഗ് മോഡ് അനുയോജ്യമാണ് ഫോഴ്സ് മോഡ് എന്ന് വിളിക്കുന്ന മൂന്നാമത്തെ മോഡ് ഓപ്പറേഷൻ കൂടി ഉണ്ട് പ്രോട്ടീൻ അൺഫോൾഡിങ്ങിനും കാഠിന്യത്തിന്റെ അളവെടുക്കലിനും ഉപയോഗിക്കുന്നത് ഫോഴ്സ് മോഡാണ് ഇവിടെ ഒരു നിർദ്ദിഷ്ട ഗുണമുള്ള സാമ്പിളാണോ അതോ ഉപരിതലത്തിൽ കിടക്കുന്ന പ്രോട്ടീൻ ആണോ എന്ന് നിങ്ങൾക്കറിയാം ടിപ്പ് താഴേയ്ക്കു കൊണ്ടു വരുന്നു താഴേക്കിറക്കുമ്പോൾ വീണ്ടും ഡിഫ്ലക്ഷൻ സെറ്റ് പോയിന്റാണ് നിയന്ത്രിക്കുന്നത് ടിപ്പിന്റെ പരമാവധി വ്യതിചലനമാണ് ഡിഫ്ലക്ഷൻ സെറ്റ് പോയിന്റ് അതിനാൽ ടിപ്പ് താഴേക്കിറങ്ങി ഉപരിതലത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് സങ്കൽപ്പിക്കുക കൂടുതൽ താഴേക്ക് പോകാൻ ശ്രമിച്ചാൽ സാമ്പിൾ കടുപ്പമുള്ളതാണെങ്കിൽ ടിപ്പ് വ്യതിചലിക്കും ഈ വ്യതിചലനമാണ് നിങ്ങൾ ട്രാക്കു ചെയ്യുന്നത് നിങ്ങൾ ഒരു വ്യതിചലന സെറ്റ് പോയിന്റ് സജ്ജമാക്കി കട്ടിയുള്ള പ്രതലത്തിൽ അതായതു ഗ്ലാസ് പോലെയുള്ള പ്രതലത്തിൽ ഫോഴ്സ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒ എ ബി സി ഡി ഇ എഫ് O A B C D E F ഉള്ള ഒരു വക്രം ലഭിക്കുമെന്ന് പറയാം നിങ്ങൾ ഈ പോയിന്റിൽ എത്തുമ്പോൾ പരമാവധി വ്യതിചലനം നിങ്ങളുടെ ഡിഫ്ലക്ഷൻ സെറ്റ് പോയിന്റിന് തത്തുല്യമാകും നിങ്ങൾ കൂടുതൽ വ്യതിചലിപ്പിക്കുകയാണെങ്കിൽ ടിപ്പ് കേടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഒരു ടിപ്പ് ഗ്ലാസ് പോലെ കട്ടിയുള്ള സാമ്പിളിൽ പതിക്കുകയാണെങ്കിൽ ഈ വക്രത എങ്ങനെ കാണപ്പെടും ഫോഴ്സ് മോഡിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ് സാമ്പിൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു കർവ് ലഭിക്കും ഇത് ടിപ്പ് സാമ്പിളിലേക്ക് പതിക്കുമ്പോൾ കിട്ടുന്നതാണ് ടിപ്പ് പിൻവലിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത് അതിനാൽ ഈ കർവ് ഞാൻ വരച്ച രീതി നോക്കിയാൽ ഇൻഡന്റ് കർവും റിട്രക്ട് കർവും ഒന്നല്ലെന്ന് നിങ്ങൾ കാണുന്നു ആദ്യത്തെ ഗ്രാഫ് വിസ്കോഇലാസ്റ്റിക് ആയ ഒരു സാമ്പിളിന്റെ സൂചനയാണ് സാമ്പിൾ തികച്ചും ഇലാസ്റ്റിക് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കർവ് ഇങ്ങനെ ലഭിക്കും അതേ വര ഉപയോഗിച്ച് ഞാൻ റിട്ടേൺ കർവ് വരയ്ക്കാം ഞാൻ വരച്ച വഴി നോക്കിയാൽ പതിക്കലും പിൻവലിക്കലും പൂർണ്ണമായും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് കാണാൻ കഴിയും തികച്ചും ലീനിയർ ഇലാസ്റ്റിക് സാമ്പിളിനായി linear നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഗ്രാഫ് ഇതാണ് രണ്ടാമത്തെ ഗ്രാഫ് എം നൽകുന്നത് ഇതുപോലുള്ള ഒരു വിവരം മാത്രമാണ് സാമ്പിൾ പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാൻ ഇത് പര്യാപ്തമല്ല നിങ്ങൾ ഈ കർവുകൾ വിവിധ മോഡലുകളുമായി യോജിപ്പിക്കുക പ്രത്യേക പ്രൊഫൈൽ ഉള്ള വിവിധ മോഡലുകൾ ഉണ്ട് അസംസ്കൃത വിവരങ്ങളിൽ നിന്ന് കാഠിന്യ മൂല്യം എടുക്കുന്നതിന് വിവിധ മോഡലുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഇത് ഒരു മോഡലാണ് ഈ മോഡലിനെ സ്നെഡൺസ് മോഡൽ Sneddon's model എന്ന് വിളിക്കുന്നു സാമ്പിളിലേക്ക് ഒരു കോണാകൃതിയിലുള്ള അഗ്രം പതിക്കുമ്പോൾ ഈ മോഡൽ ബാധകമാണ് ടിപ്പിൻറെ ഹാഫ് ആങ്കിളാണ് ആൽഫ ഈ കോണിനെ ആൽഫ എന്ന് വിളിക്കുന്നു ഇവിടെ ഇ എന്നത് സാമ്പിളിന്റെ കണക്കാക്കിയ കാഠിന്യവും ന്യൂ എന്നത് പോയസൺ Poisson's ratio അനുപാതവുമാണ് ഡെൽറ്റയും എഫും പരീക്ഷണാത്മകമായി ലഭിച്ചതാണ് ചുരുക്കത്തിൽ നിങ്ങൾക്ക് എഫിനെതിരെയുള്ള ഡെൽറ്റയുടെ ഒരു കർവ് ലഭിക്കും ഇത് നിങ്ങളുടെ അസംസ്കൃത ഡാറ്റയാണ് ഇത് ഒരു പ്രൊഫൈലുമായി യോജിക്കുന്നു പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു പരാബോളിക് പ്രൊഫൈലാണ് ന്യൂ എന്നത് സാമ്പിളിന്റെ പോയസൺ Poisson's ratio അനുപാതമാണ് അതിനാൽ നിങ്ങൾ പോയസൺ Poisson's ratio അനുപാതം ഊഹിക്കുന്നു ഈ മോഡലിന് തന്നെ വിവിധ അനുമാനങ്ങളുണ്ട് ഉദാഹരണത്തിന് അനുമാനങ്ങളിലൊന്ന് സാമ്പിൾ സെമി ഇൻഫിനിറ്റ് സോളിഡ് ആണെന്നാണ് ഇതിന്റെ അർത്ഥമെന്താണ് നിങ്ങളുടെ സാമ്പിൾ ഈ ദിശയിൽ അനന്തതയിലേക്ക് പോകുന്നുവെന്നും അത് മുകളിൽ പരന്നതാണെന്നുമാണ് കോശങ്ങൾ പോലെയുള്ള സാമ്പിളുകൾക്ക് ഇത് ബാധകമല്ല ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഏകദേശ കണക്കാണ് കിട്ടുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത് ഒരു ലളിതമായ എംപിരിക്കൽ സമവാക്യമാണ് ഡേറ്റ ഫിറ്റ് ചെയ്യാനും അതുവഴി ഇ യുടെ ഏകദേശ കണക്ക് കിട്ടുകയും ചെയ്യും സ്നെഡണിന്റെ മോഡൽ Sneddon's model പോലെ തന്നെ മറ്റൊരു മോഡൽ കൂടി ഉപയോഗിക്കാം അവിടെ സാമ്പിൾ പതിപ്പിക്കാൻ ഒരു പന്തോ സ്ഫറിക്കൽ കാപ്പോ ഉപയോഗിക്കുക ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം ആർ അടിസ്ഥാനപരമായി ടിപ്പിന്റെ ആരമാണ് ഒരു പിരമിഡൽ അല്ലെങ്കിൽ കോണാകൃതിയിലുള്ള പ്രോബ് അഥവാ അഗ്രം ഉപയോഗിക്കുന്നതിനേക്കാൾ ഗോളാകൃതിയിലുള്ള പ്രോബ് ഉപയോഗിച്ച് കോശത്തെ ഇൻഡന്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം പിരമിഡൽ പ്രോബ് ആണെങ്കിൽ വളരെ മൂർച്ചയുള്ള ഒരു എൻഡ് പോയിന്റായിരിക്കും ഈ എൻഡ് പോയിന്റിന്റെ അവസാന വക്രത 50 നാനോമീറ്ററാണ് അതിനാൽ ഇത് കോശസ്തരത്തെ പൊട്ടിക്കുന്നു ഗോളാകൃതിയിലുള്ള പ്രോബ് ഉപയോഗിക്കുകയാണെങ്കിൽ കോശത്തിൻറെ വിശാലമായ ഉപരിതലത്തിൽ ബലം വിതരണം ചെയ്യപ്പെടുന്നു കോശത്തിന്കേടുപാടുകൾ സംഭവിക്കുന്നില്ല അതിനാൽ ഈ മോഡലുകൾ ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഒരു കോശത്തിൻറെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഫിനിറ്റ് സ്പ്രെഡ് ഉണ്ട് ഒരു പിഎ ജെല്ലിൽ കൂടി നമുക്ക് ഇത് അനുമാനിക്കാം ഈ സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മൂന്ന് വ്യത്യസ്ത പോയിന്റുകളിലെ കാഠിന്യം കണ്ടെത്തുക എ ബി സി പോയിന്റുകൾ ABC points താരതമ്യം ചെയ്യാം എ പോയിന്റിൽ കോശത്തിൻറെ കനം പകുതി മൈക്രോൺ ആണ് ബി പോയിന്റിൽ 5 മൈക്രോൺ ആണ് സി പോയിന്റിൽ സാമ്പിളിന്റെ കനം 20 മൈക്രോൺ ആയിരിക്കാം അതിനാൽ നിങ്ങൾ സി പോയിന്റിൽ കാണുന്നത് കോശത്തിൻറെ മുകൾഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ന്യൂക്ലിയസ് ഉണ്ട് ഈ വിടവ് 1 മൈക്രോൺ ക്രമത്തിൽ ആകാം അതിനാൽ ഈ പോയിന്റിൽ മിക്കതും ന്യൂക്ലിയസിലാണ് ഇതിന്റെ പരിണിതഫലമായി നിങ്ങൾ വൈദ്യുതി അളക്കുമ്പോൾ ഈ അളവുകൾ കിട്ടും 1 കിലോ പാസ്കൽ മുതൽ 300 3000 കിലോ പാസ്കൽ 300 3000 kilo pascal വരെ വ്യത്യാസമുള്ള വൈവിധ്യമാർന്ന കാഠിന്യവും ലഭിക്കും ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അതായത് പരീക്ഷണം നടത്തി നിങ്ങൾക്ക് ലഭിച്ച ഡാറ്റയ്ക് എന്തെങ്കിലും അർഥമുണ്ടോ ഇവിടെയാണ് നിങ്ങൾ മോഡലിന്റെ അനുമാനങ്ങളെക്കുറിച്ച് വ്യത്യാസപ്പെട്ടിരിക്കേണ്ടത് നിങ്ങളുടെ സാമ്പിൾ സെമി ഇൻഫിനിറ്റ് ഹാഫ് സ്പെസിലാണെന്ന് അനുമാനിക്കുക അതിനർത്ഥം ഈ ദിശയിൽ ഇതിന് നിശ്ചിത വീതിയില്ല എന്നാൽ തിക്നെസ്സ് ആക്സിസ് എടുക്കുമ്പോൾ ഇത് അനന്തമായ വീതിയും ഒപ്പം അച്ചുതണ്ടിന് കട്ടിയുമുള്ളതാണ് ഇതൊക്കെയാണ് വിവിധ മാതൃകകൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിലേക്ക് സംഭാവന നൽകുന്നത് പോയിന്റ് എ യിൽ നിങ്ങൾ എന്താണോ അളക്കുന്നത് അതിന് അവിടുത്തെ സബ്സ്ട്രറ്റിന്റെ സ്വാധീനമുണ്ട് സി പോയിന്റിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള സംഭാവനയാണുള്ളത് കോശത്തിന്റെ അരികിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് വളരെ മാറിയുള്ള പോയിന്റ് ബി യിൽ മാത്രമാണ് കോശകാഠിന്യത്തിന്റെ ഏകദേശ അളവ് കിട്ടുന്നത് നിങ്ങളുടെ ഫോഴ്സ് എഫ് force F ഒരു ഡെൽറ്റ കർവ് ആണെന്ന് പറയട്ടെ നിങ്ങൾക്ക് ലഭിച്ച ഈ ഉയരം 0 മുതൽ 5 മൈക്രോൺ വരെയാണ് അതിനാൽ സബ്സ്ട്രെറ്റ് അല്ലെങ്കിൽ സാമ്പിൾ ഒരു ജെൽ ആണെങ്കിൽ സാമ്പിൾ കാഠിന്യം കണക്കാക്കാൻ നിങ്ങൾക്ക് മുഴുവൻ കനവും ഉപയോഗിക്കാം പക്ഷേ സാമ്പിൾ കോശമാണെങ്കിൽ ആദ്യത്തെ 500 മുതൽ 1000 നാനോമീറ്ററിലേക്ക് ഡാറ്റ മാറ്റുന്നതാണ് നല്ലത് ഇത് കോർട്ടിക്കൽ കാഠിന്യത്തെ കണക്കാക്കുന്നു അതിനാൽ നിങ്ങൾ അളക്കുന്നത് കോശത്തിന്റെ കോർട്ടിക്കൽ കാഠിന്യമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ കോശത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഈ സ്ട്രെസ് ഫൈബറുകൾ ഉണ്ട് ആദ്യത്തെ 500 മുതൽ 1000 വരെ നാനോമീറ്ററുകൾ മാത്രമേ ഞാൻ യോജിപ്പിക്കുന്നുള്ളൂ കോർട്ടക്സിന്റെ കാഠിന്യം കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതാണ് നിങ്ങളുടെ കോർട്ടെക്സ് തുടർന്ന് കോശത്തിന്റെ കാഠിന്യത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എടുക്കാം പോൾ ജാൻമിയും ഞങ്ങളും കാഠിന്യത്തിന്റെ ഈ പൊരുത്തപ്പെടുത്തൽ പരീക്ഷണം നടത്തി അദ്ദേഹം വ്യത്യസ്ത കാഠിന്യമുള്ള ജെല്ലുകളിൽ ഫൈബ്രോബ്ലാസ്റ്റുകൾ പ്ലേറ്റ് ചെയ്തിട്ട് കോർട്ടിക്കൽ കാഠിന്യത്തോട് കോശത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്ന് ചോദിച്ചു സ്പ്രെഡിംഗ് കോശങ്ങൾ ഒരു പ്രത്യേക കാഠിന്യത്തിനപ്പുറം വ്യാപനം മാറ്റമില്ലാതെ തുടരുന്ന ഒരു പ്രൊഫൈൽ കാണിക്കും കോർട്ടിക്കൽ കാഠിന്യത്തെ സബ്സ്ട്രെറ്റ് കാഠിന്യത്തിന്റെ പ്രവർത്തനമായി കണക്കാക്കിയപ്പോൾ എന്താണ് അദ്ദേഹം കണ്ടെത്തിയത് 5 kPa വരെ വരയുടെ ചരിവ് 45 ഡിഗ്രി ഉള്ള ഒരു കർവ് അദ്ദേഹം കണ്ടെത്തി ഇതിനർത്ഥം 5 kPa നേക്കാൾ മൃദുവായ സബ്സ്ട്രെറ്റുകൾക്ക് കോശം അതിന്റെ സ്വഭാവസവിശേഷതകൾ സബ്സ്ട്രെറ്റുമായി പൊരുത്തപ്പെടുത്തുന്നു എന്നാണ് ഈ ആംഗിൾ 45 ഡിഗ്രി ആണ് അതിനർത്ഥം കോശകാഠിന്യം അല്ലെങ്കിൽ ഇസെൽ ഇജെല്ലിന് തുല്യമാണെന്നും 5 കെപിഎയ്ക്കപ്പുറം കോശകാഠിന്യത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ലെന്നും കൂടാതെ സ്ട്രെസ് നാരുകൾ ഈ ഫ്ലാറ്റ് സോണിൽ മാത്രമേ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുമാണ് സബ്സ്ട്രെറ്റ് കാഠിന്യത്തോട് കോശങ്ങൾ എങ്ങനെ പ്രവർത്തനപരമായി പൊരുത്തപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണിത് ഒരു ഉദാഹരണം കൂടി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് രണ്ട് കോശങ്ങളുണ്ടെന്ന് സങ്കൽപ്പിക്കുക എ ടൈപ്പ് കോശവും ബി ടൈപ്പ് കോശവും എ ടൈപ്പ് കോശവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബി ടൈപ്പ് കോശത്തിൽ റോക്ക് കൈനേസ് പ്രവർത്തനം അപ്പ് റെഗുലേറ്റഡാണ് മെക്കാനോഅഡാപ്റ്റേഷന്റെ രണ്ട് മെട്രിക്സുകൾ കിട്ടി സങ്കോചവും കോർട്ടിക്കൽ കാഠിന്യവും അതിനാൽ നിങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത് ബി കോശത്തിന് ഉയർന്ന അളവിൽ റോക്ക് കൈനേസ് പ്രവർത്തനമുള്ളതിനാൽ സങ്കോചത്തിന് കാരണമാകുമെന്നാണ് ഇഎ ക്കാൾ ഇബി കൂടുതലാണെന്ന് കരുതി എന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവിടെ യാതൊരു മാറ്റവും സംഭവിച്ചില്ല എന്നാൽ ഇബി ഇഎ യ്ക്ക് തുല്യമാണെന്ന് കണ്ടെത്തി ഇത് സാധ്യമാകുമോ ഉത്തരം അതെ എന്നാണ് റോക്ക് കൈനേസ് സെൻട്രൽ സ്ട്രെസ് ഫൈബേഴ്സുകളെ നിയന്ത്രിക്കുന്നതിനാലാണിത് ഇവ ന്യൂക്ലിയസിനു ചുറ്റുമാണ് കാണുന്നത് എന്നാൽ കോർട്ടക്സിനോട് വളരെ അടുത്തുള്ള കാഠിന്യം എടുക്കുകയാണെങ്കിൽ ഈ വ്യത്യാസം കാണണമെന്നില്ല കാഠിന്യം അളക്കുമ്പോൾ ഇവയെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിർത്തുന്നു അടുത്ത ക്ലാസ്സിൽ കൺട്രാക്റ്റിലിറ്റി അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം